എഞ്ചിനീയർമാർക്കുള്ള ഡാറ്റാ സയൻസ് കോഴ്സിലെ ആർ മൊഡ്യൂളിന്റെ 6 ാം പ്രഭാഷണത്തിലേക്ക് സ്വാഗതം മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ വിവിധ ഡാറ്റാ തരം ആർ കണ്ടു ആർ എങ്ങനെ ആക്സസ് ചെയ്യാം വിവിധ ഡാറ്റാ തരങ്ങളുടെ ഘടകങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയവ ഇപ്പോൾ ആർ ൽ ഗണിത ലോജിക്കൽ മാട്രിക്സ് പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന് കാണാനുള്ള സമയമാണിത് ഈ പ്രഭാഷണത്തിൽ ആർ എന്നിലെ ഗണിത പ്രവർത്തനങ്ങൾ ലോജിക്കൽ പ്രവർത്തനങ്ങൾ മാട്രിക്സ് പ്രവർത്തനങ്ങൾ എന്നിവ എങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ കാണാൻ പോകുന്നു അതിനാൽ നമുക്ക് ആദ്യം ഗണിത പ്രവർത്തനങ്ങൾ നോക്കാം ആർ എല്ലാ അടിസ്ഥാന ഗണിത പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നു ആദ്യത്തേത് അസൈൻമെന്റ് ഓപ്പറേറ്ററാണ് വേരിയബിൾ സ്റ്റാൻഡേർഡ് കൂട്ടിച്ചേർക്കൽ കുറയ്ക്കൽ ഗുണനം ഡിവിഷൻ ഇന്റർജർ ഡിവിഷനും ശേഷിക്കുന്ന പ്രവർത്തനങ്ങളും R ൽ ലഭ്യമാണ് R ബാക്ക് അമ്പടയാളത്തിൽ സാധുവായ അസൈൻമെന്റ് ഓപ്പറേറ്റർ മാത്രമാണ് അതേസമയം ഒരു R സ്റ്റുഡിയോ ബാക്ക് അമ്പടയാളം R ശരിയായ അസൈൻമെന്റ് ഓപ്പറേറ്റർമാർ ആർ എന്നിലെ ഗണിത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തനങ്ങളുടെ ശ്രേണി നോക്കാം അതിനാൽ ബ്രാക്കറ്റുള്ള ഞങ്ങളുടെ സാധാരണ ബോഡ്മാസ് നിയമത്തിന് സമാനമാണ് ഇത് എക് സ് പോണന്റിന് രണ്ടാമത്തെ മുൻ ഗണനയുണ്ട് തുടർന്ന് ഡിവിഷൻ ഗുണനം കൂട്ടിച്ചേർക്കൽ കുറയ്ക്കൽ എന്നിവ നിങ്ങളുടെ ധാരണയ് ക്കായി നിങ്ങൾക്ക് ഈ പദപ്രയോഗത്തിൽ ടൈപ്പുചെയ്യാനും ആദ്യം മുൻ ഗണനാ ക്രമം മനസിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ A യുടെ മൂല്യം എന്തായിരിക്കുമെന്ന് കാണാനും കഴിയും ഇവിടെ ബ്രാക്കറ്റുകൾ ഇല്ല അടുത്തത് എക്സ്പോണന്റാണ് ഈ ഭാഗം 3 സ്ക്വയർ ആദ്യം വിലയിരുത്തപ്പെടും അത് 9 ഉം അടുത്ത പ്രവർത്തനം ഡിവിഷൻ 279 ഉം നിങ്ങൾക്ക് 3 നൽകും 3 തവണ 2 6 ആണ് കാരണം അടുത്ത പ്രവർത്തനം ഗുണനമാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ 6 ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രവർത്തനം എന്താണ് കൂട്ടിച്ചേർക്കൽ 6 6 കാരണം നിങ്ങൾക്ക് 1 ഇവിടെ 7 4 11 ആണ് 11 6 ഇത് നിങ്ങൾക്ക് A യുടെ മൂല്യം 5 ആയി നൽകുന്നു അടുത്തതായി ഞങ്ങൾ ആർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലേക്ക് നീങ്ങുന്നു അതിനാൽ ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ലോജിക്കൽ പ്രവർത്തനങ്ങളായ തുടങ്ങിയവയുണ്ട് 2 3 നെക്കാൾ വലുതാണോ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഉദാഹരണങ്ങളുണ്ട് അത് ഒരു മൂല്യം തെറ്റായിരിക്കും കാരണം ഈ പ്രസ്താവന 3 ൽ കൂടുതലുള്ളതല്ല അതുപോലെ നിങ്ങൾ 2 3 പറഞ്ഞാൽ അത് തെറ്റും പറയും കാരണം 2 നിങ്ങൾ ഈ കമാൻഡ് 2 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇത് ശരിയാണെന്ന് ഉത്തരം നൽകും കാരണം 2 അതിനാൽ ആർ യിൽ നടത്താൻ കഴിയുന്ന ലോജിക്കൽ പ്രവർത്തനങ്ങളുടെ സംഗ്രഹമാണിത് അടുത്തതായി ഞങ്ങൾ ഡാറ്റാ വിശകലന പ്രശ്നങ്ങൾക്ക് ആവശ്യമായ പ്രധാന ക്ലാസ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു മിക്ക ഡാറ്റയും ഞങ്ങൾ അവയെ മെട്രിക്സുകളായി പരിഗണിക്കും അതിനാൽ ഡാറ്റാ വിശകലന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ മാട്രിക്സ് പ്രവർത്തനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മെട്രിക്കുകൾ എന്താണെന്ന് ആദ്യം നിർവചിക്കാം ഒരു മാട്രിക്സിലെ വരികളിലെയും നിരകളിലെയും അക്കങ്ങളുടെ ചതുരാകൃതിയിലുള്ള ക്രമീകരണമാണ് മാട്രിക്സ് കാരണം വരികൾ തിരശ്ചീനമായി പ്രവർത്തിക്കുന്നതും നിരകളാണ് ലംബമായി പ്രവർത്തിക്കുന്നത് മെട്രിക്സുകളുടെ ഉദാഹരണങ്ങളാണിവ ഇത് മാട്രിക്സിന് 3 വരികളും 3 നിരകളുമുണ്ട് ഈ മാട്രിക്സിന് 3 വരികളും 1 നിരയും ഉണ്ട് ഇതിന് 1 വരി 3 നിരകളുണ്ട് ഇപ്പോൾ ആർ യിൽ മെട്രിക്കുകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കാം R ൽ ഒരു മാട്രിക്സ് സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ മാട്രിക്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതുണ്ട് മാട്രിക്സിന്റെ ഘടകങ്ങളാകാൻ ആവശ്യമായ ഘടകങ്ങളുടെ കൂട്ടമാണ് ഈ മാട്രിക്സിലേക്കുള്ള ആർഗ്യുമെന്റുകൾ എത്ര എണ്ണം വരികൾ നിങ്ങൾ കടന്നുപോകണം നിങ്ങൾക്ക് എത്ര എണ്ണം നിരകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മാട്രിക്സിൽ ഉണ്ടായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വരിയിലെ പ്രധാനമാണിത് സാധാരണയായി R ഒരു നിര ഫാഷനിൽ നിങ്ങൾ പ്രവേശിച്ച ഘടകങ്ങൾ ക്രമീകരിക്കുന്നു ഫാഷനായി തുടർച്ചയായി നൽകേണ്ട ഘടകങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരിവരിയായി നിങ്ങൾ പറയണം വരി പ്രകാരം സ്ഥിരസ്ഥിതി ഓപ്ഷൻ തെറ്റാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടു ഒരു മാട്രിക്സ് സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് 1 മുതൽ 9 വരെയുള്ള ഘടകങ്ങളുള്ള ഒരു മാട്രിക്സ് നമുക്ക് സൃഷ്ടിക്കാം അതിൽ 3 വരികളും 3 നിരകളും അടങ്ങിയിരിക്കുന്നു കൂടാതെ വരി വിവേകപൂർണ്ണമായ രീതിയിൽ ഘടകങ്ങൾ പൂരിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് കമാൻഡ് ഇത് ചെയ്യുന്നു നിങ്ങൾ കണ്ടാൽ output ട്ട് പുട്ട് 1 2 3 4 5 6 7 8 9 ആണ് അവ തുടർച്ചയായി തിരിച്ചുള്ള രീതിയിൽ നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആർ എറിൽ ചില ഫാഷൻ മെട്രിക്സുകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കാം ആദ്യത്തേത് സ്കെയിലർ മാട്രിക്സ് ആണ് അതിൽ ഒറ്റ സ്ഥിരമായ കെ നിറച്ച എല്ലാ വരികളും നിരകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ 3 ആയിരിക്കേണ്ട മൂല്യം ഞങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വരികളുടെ എണ്ണവും നിങ്ങൾക്ക് ആവശ്യമുള്ള നിരകളുടെ എണ്ണവും നിങ്ങൾ വ്യക്തമാക്കണം അതിനാൽ 3 വരികളും 4 നിരകളും അടങ്ങിയിരിക്കുന്ന ഒരു മാട്രിക്സായ 3 എലമെന്റ് ഉപയോഗിച്ച് എല്ലാ വരികളും നിരകളും പൂരിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ 3 3 4 എന്നിവ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ അച്ചടിച്ച മാട്രിക്സ് ലഭിക്കും അതിനാൽ കമാൻഡ് മാട്രിക്സ് ആണ് ഇത് നിങ്ങൾ എത്ര വരികളിലും നിരകളിലും അച്ചടിക്കാൻ ആഗ്രഹിക്കുന്ന ഘടകമാണ് എത്ര വരികളും എത്ര നിരകളും വ്യക്തമാക്കേണ്ടതുണ്ട് അടുത്തതായി ഡയഗണൽ മാട്രിക്സിനായി നിങ്ങൾ നൽകേണ്ട ഇൻപുട്ടുകൾ ഡയഗണൽ മാട്രിക്സിൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ കാണുന്നു ഡയഗണൽ മാട്രിക്സിന്റെ അളവ് എന്നിവയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ് അതിനാൽ ഇതാണ് കമാൻഡ് ഡയഗ് ഘടകങ്ങൾ നിങ്ങൾക്ക് ഡയഗണൽ ഘടകങ്ങളായി ആവശ്യമുള്ള ഘടകങ്ങളുടെ വെക്റ്ററും നിരകളുടെ വരികളും എണ്ണവും ആണ് അതിനാൽ ഈ ഉദാഹരണം കാണുക ഞങ്ങൾക്ക് 4 5 6 ഞങ്ങളുടെ ഡയഗനലുകളുടെ ഘടകങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ₃ ഈ കമാൻഡ് ഉപയോഗിക്കാൻ കഴിയുന്ന 3 മാട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആ 4 കാണാൻ കഴിയും 5 6 ഡയഗണലിലെ നിങ്ങളുടെ ഘടകങ്ങളാണ് ബാക്കി ഘടകങ്ങൾ അവിടെയുണ്ട് നിങ്ങൾ എങ്ങനെ ഐഡന്റിറ്റി മാട്രിക്സ് സൃഷ്ടിക്കും ഡയഗോണലുകളിലെ മൂല്യങ്ങളുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സുകൾ നിങ്ങൾക്ക് ഡയഗ് കമാൻഡിൽ സൃഷ്ടിക്കാൻ കഴിയും തുടർന്ന് 3 ഐഡന്റിറ്റി മാട്രിക്സ് എ 3 സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം തുടർന്ന് വരികളെ 3 ആയി വ്യക്തമാക്കണം നിരകളുടെ എണ്ണം 3 ആയി നിങ്ങൾ വ്യക്തമാക്കണം ഇത് മറ്റെല്ലാ ഘടകങ്ങളുമുള്ള ഡയഗോണലുകളിൽ 1 ഇടും ഇപ്പോൾ ഒരു വ്യായാമമെന്ന നിലയിൽ നിങ്ങൾക്ക് R ൽ ഇനിപ്പറയുന്ന മെട്രിക്സ് സൃഷ്ടിക്കാൻ ശ്രമിക്കാം അടുത്തതായി ഞങ്ങൾ മാട്രിക്സ് സൃഷ്ടിച്ചുകഴിഞ്ഞാൽ മാട്രിക്സ് അളവുകളിലേക്ക് നീങ്ങുന്നു മാട്രിക്സിന്റെ അളവ് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും മാട്രിക്സിൽ എത്ര വരികൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും മാട്രിക്സിൽ എത്ര നിരകൾ ഉണ്ട് മാട്രിക്സിൽ എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നത് ഞങ്ങൾ സാധാരണയായി ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം അറിയാൻ ഞങ്ങൾക്ക് ഇനിപ്പറയുന്ന അഭിപ്രായങ്ങൾ ഉപയോഗിക്കാം എ യുടെ അളവ് മാട്രിക്സിന്റെ വലുപ്പം തിരികെ നൽകും അത് മാട്രിക്സിന്റെ വലുപ്പം എന്താണെന്ന് പറയും അത് എ 3 മുതൽ 3 അല്ലെങ്കിൽ 4 വരെ 5 അങ്ങനെ ഒരു വരി നിങ്ങൾക്ക് വരികളുടെ എണ്ണം നൽകും നിങ്ങളുടെ n നിര നിങ്ങൾക്ക് നിരകളുടെ എണ്ണം നൽകും ഒന്നുകിൽ എ അല്ലെങ്കിൽ എ അളവുകളുടെ ഉൽ പ്പന്നത്തിന്റെ നീളം മാട്രിക്സിൽ നിലവിലുള്ള ഘടകങ്ങളുടെ എണ്ണം തിരികെ നൽകും ഈ കമാൻഡ് ഉപയോഗിച്ച് സൃഷ്ടിച്ച മാട്രിക്സ് എയ് ക്കായി എ യുടെ അളവ് നിങ്ങൾക്ക് 3 മുതൽ 3 വരെ നൽകുമെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കാരണം അതിൽ 3 വരികളും 3 നിരകളുടെ വരികളുടെ എണ്ണവും അടങ്ങിയിരിക്കുന്നു 3 ഉം നിരകളുടെ എണ്ണം 3 ഉം മാട്രിക്സിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം 9 ഉം ആണ് ഡാറ്റാ ഫ്രെയിമുകളിൽ പിന്തുടരുന്ന അതേ കൺവെൻഷൻ ഉപയോഗിച്ച് മെട്രിക്സുകളിലെ ഘടകങ്ങൾ ആക്സസ് ചെയ്യാനും എഡിറ്റുചെയ്യാനും ഇല്ലാതാക്കാനും ഞങ്ങൾക്ക് കഴിയും അതിനാൽ നിങ്ങൾക്ക് ഒരു മാട്രിക്സ് ഉണ്ടാകും തുടർന്ന് കോമയ് ക്ക് ശേഷമുള്ള വരികളും അറേയും മൂല്യവും ആക് സസ് ചെയ്യുന്നതിന് കോമ ഉപയോഗിക്കുന്നതിന് മുമ്പായി അറേയ്ക്കും മൂല്യങ്ങൾക്കും ഇടയിൽ കോമ ഉള്ള ഒരു ചതുര ബ്രാക്കറ്റ് നിരകൾ ആക് സസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ചില നിരകൾ നീക്കംചെയ്യണമെങ്കിൽ വരികളോ നിരകളോ മുമ്പായി ഒരു നെഗറ്റീവ് ചിഹ്നം ചേർക്കേണ്ടതുണ്ട് കമാൻഡുകൾ വരി നാമങ്ങളും വരി നിരകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വരികളുടെയും നിരകളുടെയും പേരുകളായി സ്ട്രിംഗുകൾ നൽകാനും കഴിയും 1 2 3 4 5 6 8 9 1 എന്ന ഘടകങ്ങളുള്ള ഒരു മാട്രിക്സ് എ ഇവിടെ ഞങ്ങൾ സൃഷ്ടിച്ചു ഇത് 3 മുതൽ 3 മാട്രിക്സ് വരെ എ 3 ആണ് ഞങ്ങൾ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഘടകങ്ങൾ വിവേകപൂർവ്വം വരിവരിയായി നമുക്ക് ഇപ്പോൾ നിരകളെ ഒരു ബി സി ആയി പേരിടാനും വരികളെ d e f എന്ന് പേരിടാൻ കഴിയും ഒരിക്കൽ നിങ്ങൾ അത് ചെയ് ത് ഒരു പ്രിന്റുചെയ് തുകഴിഞ്ഞാൽ ഈ നിരയെ എ എന്ന് നാമകരണം ചെയ് തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ നിരയെ ബി എന്ന് നാമകരണം ചെയ്യുന്നു ഈ നിരയെ സി എന്ന് നാമകരണം ചെയ്യുന്നു അതുപോലെ തന്നെ വരി ഒന്നിന് d എന്ന് പേരിട്ടിരിക്കുന്നതും വരി 2 നെ e എന്നും വരി 3 എന്ന് നാമകരണം ചെയ്യുമെന്നും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഡാറ്റാ ഫ്രെയിമുകൾക്കായി ഞങ്ങൾ ഉപയോഗിച്ച അതേ കൺവെൻഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യ രണ്ട് നിരകൾ ആക് സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ചതുര ബ്രാക്കറ്റിനൊപ്പം കോമയ്ക്ക് മുമ്പായി ഒന്നുമില്ല തുടർന്ന് നിങ്ങൾക്ക് 1 മുതൽ 2 വരെ ആക്സസ് വേണം അത് നിങ്ങൾ ആ അറേ ഇവിടെ നൽകേണ്ട ആദ്യ രണ്ട് നിരകളാണ് തുടർന്ന് അത് ചെയ്യും എ യുടെ ആദ്യ രണ്ട് നിരകൾ ആക് സസ് ചെയ്യുക ഡാറ്റാ ഫ്രെയിമുകളിൽ ഞങ്ങൾ കണ്ടതുപോലെ നിരയുടെ പേരുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിരകളിലേക്ക് പ്രവേശിക്കാനും കഴിയും അതിനാൽ ഒരു സി നിരകളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് നിരകളുടെ പേരുകൾ വ്യക്തമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന 1 3 നിരകൾ അതുപോലെ തന്നെ വരികളുടെ പേരുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരികൾ ആക്സസ് ചെയ്യാനും കഴിയും d f എന്നീ പേരുകളുള്ള ഒന്നും മൂന്നും വരി ആക്സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ആക് സസ് വരി d വരി f എല്ലാ നിരകളും ആവശ്യമുള്ള ഈ കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും അതിനാൽ output ട്ട് പുട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഒരു മാട്രിക്സിന്റെ എൻ ട്രി ആക് സസ് ചെയ്യണമെങ്കിൽ സമാനമായ കൺവെൻഷൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഘടകം ആക്സസ് ചെയ്യണമെങ്കിൽ അത് ആദ്യ വരിയിലും നിങ്ങൾ ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ നിരയിലും മാട്രിക്സ് എ ലെവലിലാണ് അത് ഘടകം കൊണ്ടുവരിക ആദ്യ വരിയിലും രണ്ടാമത്തെ നിരയിലും നിങ്ങൾക്ക് output ട്ട് പുട്ട് 2 നൽകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഘടകം 6 ആക്സസ് ചെയ്യണമെങ്കിൽ അത് രണ്ടാമത്തെ വരിയിലാണെന്നും മൂന്നാമത്തെ നിരയിലാണെന്നും നിങ്ങൾ പറയണം നിങ്ങൾ 2 കോമ 3 ന്റെ എ ഇത് output ട്ട് പുട്ട് 6 നൽകുന്നു കോമയ്ക്ക് മുമ്പുള്ള ഭാഗം വരി നമ്പറിനെ പരാമർശിക്കേണ്ടതും കോമയ്ക്ക് ശേഷമുള്ള ഭാഗം നിര നമ്പറിനെ പരാമർശിക്കേണ്ടതും ഞങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ ഒരു മാട്രിക്സിന്റെ ഒരു നിര എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം അതിനാൽ നിങ്ങൾക്ക് ആക്സസ് ആവശ്യമുള്ള നിര സൂചിക വ്യക്തമാക്കുക വരികളുടെ സൂചിക വ്യക്തമാക്കാതെ വിടുക ഒരു നിശ്ചിത നിര സൂചികയുടെ എല്ലാ വരി ഘടകങ്ങളും നിങ്ങൾ ആക്സസ് ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എ മാട്രിക്സ് ആദ്യ നിര ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വരികളിലും ആദ്യ നിരയിലും ഒന്ന് അത് നിങ്ങൾക്ക് 1 4 7 output ട്ട് പുട്ട് നൽകും ഒരു നിര ആക് സസ് ചെയ്യുന്നതിന് സമാനമായി ഞങ്ങൾക്ക് ഒരു മാട്രിക്സിന്റെ വരി ആക് സസ് ചെയ്യാൻ കഴിയും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആക് സസ് ചെയ്യാനും നിരയിൽ ഒന്നും വ്യക്തമാക്കാനും ആഗ്രഹിക്കുന്ന വരി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതാണ് എല്ലാ നിരകളും ആക് സസ് ചെയ്യുക എന്ന് പറയുന്ന സൂചിക നിങ്ങൾക്ക് വരി 2 ആക്സസ് ചെയ്യണമെങ്കിൽ വരി ഐഡിയിൽ 2 ആയി വ്യക്തമാക്കുകയും കോളം ഐഡിയിൽ ശൂന്യമായ ഇടം നൽകുകയും വേണം അതിനാൽ രണ്ട് വരി എല്ലാ നിരകളും അച്ചടിക്കും അത് നിങ്ങൾക്ക് 4 5 6 ആക്സസ് ചെയ്യാൻ കഴിയും അവസാന വരി എങ്ങനെ ആക്സസ് ചെയ്യും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇതുപോലൊന്ന് ചെയ്യാൻ കഴിയുമോ സ്വന്തമായി ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു അടുത്തതായി എല്ലാം എങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് ഞങ്ങൾ കാണും പക്ഷേ ഒരു നിര ഈ ഭാഗം 1 4 7 3 6 9 ഈ മാട്രിക്സിൽ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നിര എനിക്ക് ആക് സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാട്രിക്സിൽ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മാട്രിക്സിൽ നിന്ന് ഈ നിര ഇല്ലാതാക്കുന്നത് പോലെയാണ് ഇതിന് മുമ്പ് ഒരു നെഗറ്റീവ് ചിഹ്നം ഉള്ളതിനാൽ നിങ്ങൾക്ക് എല്ലാം പറയാൻ കഴിയുന്ന രണ്ടാമത്തെ നിരയാണ് എനിക്ക് ആവശ്യമുള്ള വരികൾ ഈ രണ്ടാമത്തെ നിര ഓഫാക്കാനും ഞാൻ എയിലേക്ക് തിരികെ നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എ 1 4 7 3 6 9 ആയി ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇത് എല്ലാ കോമയും അച്ചടിക്കുകയാണെങ്കിൽ 2 ഇത് ആവശ്യമുള്ള ഫലം നൽകും അത് 1 4 7 ആണ് 3 6 9 മുമ്പത്തെ സ്ലൈഡിൽ നിങ്ങൾ കണ്ടതിന് സമാനമായി നിങ്ങൾക്ക് എല്ലാം ആക്സസ് ചെയ്യാനും കഴിയും എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വരി ഉദാഹരണം ഈ വരി ഒഴികെ ഒരു ഭാഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആക്സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും രണ്ടാമത്തെ വരി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എല്ലാം വേണം നിരകൾ ഇപ്പോൾ നിങ്ങൾ ഈ കമാൻഡ് ചെയ്തുകഴിഞ്ഞാൽ 1 2 3 7 8 9 എന്നിവ നിങ്ങളുടെ ട്ട് പുട്ടായി അച്ചടിക്കുമെന്ന് നിങ്ങൾ പറയും ഒരു മാട്രിക്സിന്റെ ഘടകങ്ങൾ ആക് സസ് ചെയ്യുന്നതിനുള്ള ഒരു വ്യായാമമെന്ന നിലയിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ഒരു വൻകുടൽ ഓപ്പറേറ്റർ എന്ന് വിളിക്കപ്പെടുന്നവ ഞങ്ങൾ അവതരിപ്പിക്കും ഉദാഹരണത്തിന് തുല്യ വീതിയുള്ള ഘടകങ്ങളുടെ ഒരു നിര സൃഷ്ടിക്കാൻ കോളൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു ഞാൻ 1 മുതൽ 10 വരെ ടൈപ്പുചെയ്യുകയാണെങ്കിൽ അത് 1 മുതൽ 10 വരെ അക്കങ്ങൾ 1 വിടവോടെ സൃഷ്ടിക്കും 1 വിടവ് ഉപയോഗിച്ച് 10 മുതൽ 1 വരെ അച്ചടിക്കുന്ന ഓർഡർ എനിക്ക് മാറ്റാനും കഴിയും എന്തുകൊണ്ടാണ് ഈ വൻകുടൽ പ്രധാനമായിരിക്കുന്നത് മുമ്പത്തെ സ്ലൈഡുകളിൽ വരികളുടെയോ നിരകളുടെയോ എണ്ണം ആക് സസ്സുചെയ്യുമ്പോൾ സമാനമായ എന്തെങ്കിലും ഞാൻ ഉപയോഗിക്കുമായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഉദാഹരണത്തിന് സബ് മാട്രിക്സുള്ള മാട്രിക്സിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വൻകുടൽ ഓപ്പറേറ്റർ ശരി ഉപയോഗിക്കാം അതിനാൽ ഈ മാട്രിക്സിന്റെ ആദ്യ 3 വരികളും ആദ്യത്തെ 2 നിരകളും ആക് സസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം ഞാൻ ഇത് എങ്ങനെ ചെയ്യും 1 മുതൽ 3 വരെ വരികൾ ആക് സസ് ചെയ്യാനും 1 മുതൽ 2 വരെയുള്ള നിരകൾ ആക് സസ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ മാട്രിക്സിൽ നിന്ന് സബ് മെട്രിക്സുകൾ ആക്സസ് ചെയ്യുന്നതിന് ഈ വൻകുടൽ ഓപ്പറേറ്റർ ഞങ്ങളെ സഹായിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഉദാഹരണത്തിൽ ഇത് പറയുന്നത് 3 വരികളെല്ലാം ആക്സസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ നിര എനിക്ക് ആവശ്യമില്ല ഇത് ഒരേ പ്രവർത്തനമാണ് പക്ഷേ മറ്റൊരു രീതിയിൽ ചെയ്തു എല്ലാ വരികളും ആക് സസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും പക്ഷേ ഇത് ആദ്യ രണ്ട് നിരകളിൽ നിന്ന് മാത്രം വരണം അതിനാൽ നിങ്ങൾക്ക് സുഖപ്രദമായ രീതിയെ ആശ്രയിച്ച് വ്യത്യസ്ത ഫാഷനുകളിൽ സബ് മാട്രിക്സ് ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഈ 1 കോമ 2 7 കോമ 8 ആക്സസ് ചെയ്യാനും ഞാൻ ഇത് എങ്ങനെ ചെയ്യും എന്ന് പ്രത്യേകം ഒരു സബ് മാട്രിക്സായി നടത്താനും ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ് മെട്രിക്സുകൾ ആക്സസ് ചെയ്യുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് 1 3 വരികൾ ആക് സസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു 1 2 നിരകളിൽ എനിക്ക് ആക് സസ് ചെയ്യേണ്ട നിരകൾ എന്തൊക്കെയാണ് അതിനാൽ 1 2 നിരകളിൽ എനിക്ക് പറയാനുള്ളത് വരി 1 വരി 3 എന്നിവയിലെ ഘടകങ്ങളിലേക്ക് പ്രവേശനം അത് എനിക്ക് മാട്രിക്സ് നൽകുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലുള്ള രണ്ട് ആർഗ്യുമെന്റുകൾക്കും നിങ്ങൾക്ക് കൺകാറ്റെനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാം നിങ്ങൾക്ക് 1 കോമ 3 സി എന്നിവയുടെ സി ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലം നൽകുന്നു സബ് മെട്രിക്സുകൾ ആക് സസ് ചെയ്യുന്നതിനുള്ള ഒരു വ്യായാമമായി നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം അടുത്തതായി ഞങ്ങൾ മാട്രിക്സ് കൺകാറ്റനേഷനായ മെട്രിക്സുകളിലെ മറ്റൊരു പ്രധാന പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു മാട്രിക്സ് കൺകാറ്റെനേഷൻ എന്നത് നിലവിലുള്ള മാട്രിക്സിലേക്ക് വരികളോ നിരകളോ ലയിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു നിലവിലുള്ള മാട്രിക്സിലേക്ക് ഒരു വരി ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ rbind കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒരു മാട്രിക്സിലേക്ക് ഒരു കോളം ചേർക്കണമെങ്കിൽ cbind കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതാണ് ഈ മാട്രിക്സ് കൺകാറ്റെനേഷൻ ചെയ്യുന്നതിന് മുമ്പ് അളവുകളുടെ സ്ഥിരത ഒരു ആർ ബൈൻഡിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമാക്കാം ഞങ്ങൾക്ക് ഒരു മാട്രിക്സ് എ മാട്രിക്സ് ബി എന്നിവയുണ്ടെന്നും ആർ ബൈൻഡ് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന മാട്രിക്സ് എയിലെ തുടർച്ചയായി ഈ മാട്രിക്സ് ബി സംയോജിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക ഇവിടെ കാണിച്ചിരിക്കുന്നു ഞാൻ മാട്രിക്സ് എയിലേക്ക് മാട്രിക്സ് ബി ആണ് ഞാൻ ഇത് സി വേരിയബിളിലേക്ക് നിയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ കമാൻഡ് ചെയ്യുമ്പോൾ മാട്രിക്സ് സിക്ക് 10 11 12 വരി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് മാട്രിക്സ് ബി ആണ് ഇത് എ മാട്രിക്സ് എയുമായി യോജിക്കുന്നു ഇപ്പോൾ സി ബൈൻഡിംഗ് നമുക്ക് കാണാം നിങ്ങൾക്ക് ഈ മാട്രിക്സ് എ ഉണ്ടെന്ന് പറയാം ഞങ്ങൾക്ക് മാട്രിക്സ് ബി ഉണ്ട് അത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന എ യുടെ നിരകളുമായി ഈ ബി മാട്രിക്സ് സംയോജിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആദ്യത്തെ മാട്രിക്സ് എ രണ്ടാമത്തെ മാട്രിക്സ് ബി എന്നിവയിലൂടെ സി ഇവിടെ കാണിച്ചിരിക്കുന്ന സി ബൈൻഡ് കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും കൂടാതെ സി വേരിയബിളിലേക്ക് നിയോഗിക്കുക നിങ്ങൾ സി അച്ചടിക്കുമ്പോൾ മാട്രിക്സ് ബി മാട്രിക്സ് എ യുടെ ഒരു നിരയായി സംയോജിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ സി ബൈൻഡിംഗ് ഉപയോഗിച്ച് ഈ മാട്രിക്സ് എയുമായി ഈ ബി സംയോജിപ്പിക്കാൻ ശ്രമിക്കാം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഒരു പിശക് പ്രതീക്ഷിക്കുന്നു കാരണം എ 3 മുതൽ 3 വരെ അളവ് ഉണ്ട് പക്ഷേ ബിക്ക് 1 മുതൽ 3 വരെ ഉണ്ട് എനിക്ക് ഒരു നിര ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മാട്രിക്സ് ബി യുടെ അളവ് 3 മുതൽ 1 വരെ ആയിരിക്കും എന്നാൽ ഇത് 1 മുതൽ 3 വരെയാണ് അതിനാലാണ് നിങ്ങൾക്ക് ഒരു പിശക് ലഭിക്കുന്നത് നിരവധി മെട്രിക്സുകളുടെ സി ബൈൻഡിലെ പിശക് പൊരുത്തപ്പെടണം ഇപ്പോൾ ഈ അളവിലുള്ള പൊരുത്തക്കേട് പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ബി കൈമാറുകയും പിന്നീട് ഇത് 3 മുതൽ 1 വരെയും ഇപ്പോൾ എ 3 മുതൽ 1 വരെയും ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും സി ബൈൻഡ് കമാൻഡ് ഉപയോഗിച്ച് എ കോമ ബി ബൈൻഡ് ചെയ്ത് സിയിലേക്ക് നിയോഗിക്കുക ഇപ്പോൾ ഈ സി ബന്ധിപ്പിക്കുന്നത് സംഭവിച്ചതായും ബി മാട്രിക്സ് എയുമായി യോജിക്കുന്നുവെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു നിര എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ കണ്ടു നിങ്ങൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന നിരകൾക്ക് മുമ്പായി നിങ്ങൾക്ക് നെഗറ്റീവ് ചിഹ്നം ഉപയോഗിക്കാനും തുടർന്ന് ആവശ്യമായ output ട്ട് പുട്ട് അച്ചടിച്ചതായി നിങ്ങൾ കാണും മുമ്പത്തെ സ്ലൈഡിൽ ഞങ്ങൾ കണ്ടതിന് സമാനമായി മാട്രിക്സിൽ നിന്ന് ഒരു വരി ഇല്ലാതാക്കാനും കഴിയും ഈ വരി 2 ഇല്ലാതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക 2 എന്നിട്ട് എല്ലാ നിരകളും എന്നിട്ട് അത് എയിലേക്ക് തിരികെ നൽകുക Vo ട്ട് പുട്ടിൽ വരി 2 ഇല്ലാതാക്കിയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ആർ ലെ കൂട്ടിച്ചേർക്കൽ കുറയ്ക്കൽ ഗുണനം മാട്രിക്സ് ഡിവിഷൻ എന്നിവ പോലുള്ള മെട്രിക്സുകളിൽ ബീജഗണിത പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് മെട്രിക്സുകളായ എ ബി എന്നിവ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് കരുതുക മാട്രിക്സ് കൂട്ടിച്ചേർക്കൽ നേരെ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് A B എന്ന് പറയാൻ കഴിയും നിങ്ങൾക്ക് ട്ട് പുട്ട് ലഭിക്കും അതിനാൽ 1 3 4 2 1 3 3 3 എന്നത് 6 എലമെന്റ് ബുദ്ധിപരമായ പ്രവർത്തനം സംഭവിക്കുന്നത് നിങ്ങൾ കാണും അതാണ് സാധാരണ മാട്രിക്സ് പ്രവർത്തനവും അതിനാൽ നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ ചെയ്യാനും കഴിയും എ എന്ന ട്രിക്ക് ബി ഉണ്ടെന്ന് പറയുമ്പോൾ ഗുണനം അൽപ്പം ട്രിക്കിയർ ആണ് ഇത് 1 മുതൽ 3 വരെ എലമെൻറ് ബുദ്ധിപരമായ ഗുണനം 3 2 മുതൽ 1 വരെ 2 ഉം 3 മുതൽ 3 വരെ 9 ഉം ആണ് നിങ്ങൾക്ക് ഒരു സാധാരണ മാട്രിക്സ് ഗുണനം വേണമെങ്കിൽ പതിവ് മാട്രിക്സ് പ്രവർത്തനം നടത്തുന്ന ഈ ഹാഷ് ട്രിക്ക് മുമ്പും ശേഷവും നിങ്ങൾ ശതമാനം ചിഹ്നം ഉപയോഗിക്കണം ഇപ്പോൾ നമുക്ക് മാട്രിക്സ് ഡിവിഷൻ നോക്കാം നിങ്ങൾക്ക് യഥാക്രമം 4 9 16 25 2 3 4 5 എന്നിങ്ങനെ രണ്ട് മെട്രിക്സുകൾ എ ബി ഉണ്ടെന്ന് പറയാം ഇപ്പോൾ ഞാൻ ബി വഴി എ ചെയ്താൽ അത് ചെയ്യുന്നത് ഘടക ബുദ്ധിപരമായ വിഭജനമാണ് പക്ഷേ ഒരു മാട്രിക്സിന്റെ വിപരീതമല്ല അതിനാൽ നിങ്ങൾ മാട്രിക്സ് എ മാട്രിക്സ് ബി സൃഷ്ടിച്ചു തുടർന്ന് നിങ്ങൾ ബി വഴി എ ചെയ്താൽ 4 ബൈ 2 9 മുതൽ 3 വരെ 3 ആണെന്ന് നിങ്ങൾ കാണും 16 മുതൽ 4 വരെ 4 ആണ് അതിനാൽ നിങ്ങൾ എ ബൈ ബി ചെയ്യുമ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് രണ്ട് മെട്രിക്സുകൾ എ ബി എന്നിവ ഉണ്ടെന്ന് കരുതുക അത് ഒരു ഘടക ബുദ്ധിമാനായ ഡിവിഷൻ നടത്തും എന്നാൽ ഒരു മാട്രിക്സിന്റെ വിപരീതമല്ല ആർ എന്നിലെ ഗണിത ലോജിക്കൽ മാട്രിക്സ് പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ കണ്ടു അടുത്ത പ്രഭാഷണത്തിൽ ആർ എങ്ങനെ ഫംഗ്ഷനുകൾ എഴുതാമെന്നും അവ എങ്ങനെ അഭ്യർത്ഥിക്കാമെന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള ചുമതല നിർവഹിക്കാൻ അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു